ഒരു മോഡ് I ലോഡിംഗിന്റെ കാര്യത്തിൽ വിള്ളൽ സ്വയം സമാനമായ രീതിയിൽ പ്രചരിക്കുമെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പരിശോധിച്ചു ശുദ്ധമായ മോഡ് II ന്റെ കാര്യത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ പറഞ്ഞു വിള്ളൽ ഒരു കോണിൽ പ്രചരിക്കും അത് ഉചിതമായ മാനദണ്ഡങ്ങളിൽ നിന്ന് നിങ്ങൾ കണ്ടെത്തണം ഊർജ്ജ ബാലൻസിന്റെ മാനദണ്ഡങ്ങൾ നമ്മൾ പരിശോധിച്ചു കോപ്ലാനാർ ക്രാക്ക് എക്സ്റ്റൻഷന് ഇത് ഉപയോഗപ്രദമാണെന്ന് ഞാൻ പറഞ്ഞു Mixed Mode Fracture Continued വിള്ളൽ വളർച്ച കണക്കാക്കാൻ അനുവദിക്കുന്ന മാനദണ്ഡങ്ങൾ നമ്മൾ പരിശോധിച്ചു Maximum principal stress criterion ഞാൻ പരാമർശിച്ചിരുന്നു യഥാർത്ഥത്തിൽ ഇത് അവതരിപ്പിച്ചപ്പോൾ ഇത് പരമാവധി ടാൻജൻഷ്യൽ സ്ട്രെസ് മാനദണ്ഡം എന്നറിയപ്പെടുന്നു അസിംപ്റ്റോട്ടിക് സീരീസ് വിപുലീകരണത്തിൽ നിങ്ങൾ ആദ്യത്തെ പദം മാത്രം ഉപയോഗിക്കുന്നിടത്തോളം പരമാവധി പ്രിൻസിപ്പൽ സ്ട്രെസും പരമാവധി ടാൻജൻഷ്യൽ സ്ട്രെസ് സിഗ്മ തീറ്റ തീറ്റയും രണ്ട് ദിശകളും യോജിക്കുന്നു ഈ സിദ്ധാന്തത്തെ അടിസ്ഥാനമാക്കിയുള്ള വിള്ളൽ വളർച്ചാ ദിശ കണ്ടെത്തുന്നതിനുള്ള പദപ്രയോഗവും നമ്മൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വിള്ളൽ വളർച്ചാ ദിശ ലഭിക്കുന്ന മറ്റൊരു സിദ്ധാന്തം സ്ട്രെയിൻ എനർജി സാന്ദ്രത സിദ്ധാന്തത്തിൽ നിന്നാണ് മിക്സഡ് ലോഡിംഗിന് കീഴിലുള്ള ഈ വിള്ളൽ മിനിമം സ്ട്രെയിൻ എനർജി ഡെൻസിറ്റി ദിശയിലേക്ക് വ്യാപിക്കും നമ്മൾ തിരിച്ചുപോയി MTS മാനദണ്ഡത്തിലെ വിള്ളൽ വളർച്ചാ ദിശ അവലോകനം ചെയ്യും നിങ്ങൾ shear stress പൂജ്യമാക്കുക അതിനാൽ പ്രധാന സമവാക്യം ഇതാണ് K I sin theta m plus K II 3 cos theta m മൈനസ് 1 പൂജ്യത്തിനു തുല്യമാണ് കുറച്ച് ലളിതമാക്കിയ ശേഷം നിങ്ങൾക്ക് വിള്ളൽ വളർച്ചാ ദിശയ്ക്കുള്ള പദപ്രയോഗം ലഭിക്കും നിങ്ങൾക്ക് ഇത് tan theta m divided by 2 equal to 1 by 4 K I by K II plus അല്ലെങ്കിൽ മൈനസ് 1 by 4 square root of K I by K II whole square plus 8 എന്ന് ലഭിക്കും അതിനാൽ ഇതിൽ നിന്ന് തീറ്റ m ന്റെ മൂല്യം നിങ്ങൾ കണക്കാക്കേണ്ടതുണ്ട് രണ്ട് റൂട്ടുകളിൽ നിന്ന് ഏതാണ് അനുവദനീയമായ റൂട്ട് എന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടതുണ്ട് അതിനാൽ ഇതിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ എന്താണ് നോക്കുന്നത് ഒരു നിശ്ചിത പ്രശ്നത്തിൽ ലോഡിംഗ് K I K II എന്നിവയുടെ മൂല്യം കണക്കാക്കുന്നു അതിനാൽ ഏത് ദിശയിൽ വിള്ളൽ വളരാൻ സാധ്യതയുണ്ട് എന്ന് ഈ പദപ്രയോഗം നൽകും എന്നാൽ വിള്ളലിന് Fracture ലൂടെ മുന്നോട്ട് പോകണമെങ്കിൽ അത് അസ്ഥിരാവസ്ഥയിലെത്തണം എന്താണ് ആ അസ്ഥിരാവസ്ഥ അതും നാം നോക്കേണ്ടതുണ്ട് എന്നാൽ അതിലേക്ക് പോകുന്നതിനു മുമ്പ് പരീക്ഷണങ്ങളിൽ നിന്ന് results ഇന്റെ താരതമ്യവും നമ്മൾ കാണും നിങ്ങൾക്ക് ഇവിടെയുള്ളത് ഈ അക്ഷത്തിൽ K I by K II പ്ലോട്ട് ചെയ്തിരിക്കുന്നു ഇത് 0 മുതൽ 1 വരെ വ്യത്യാസപ്പെടുന്നു അതിനാൽ അതിനർത്ഥം തിരശ്ചീന അക്ഷം നിങ്ങൾക്കുള്ളതെന്തും ഇവിടെ ഇത് ശുദ്ധമായ മോഡ് II സാഹചര്യത്തിനുള്ളതാണ് ഗ്രാഫിന്റെ മുകളിൽ ഇത് K I K II ന് തുല്യമാണ് അതിനാൽ മോഡ് I മോഡ് II എന്നിവയുടെ പ്രഭാവം തുല്യമായ സാഹചര്യത്തിലേക്ക് നിങ്ങൾ മോഡ് II ൽ നിന്ന് പോകുന്ന ഒരു സെഗ്മെന്റ് ഉണ്ട് മറ്റൊന്നിൽ മോഡ് I പ്രബലമാണ് നിങ്ങൾ മോഡ് I ൽ നിന്ന് K I K II ന് തുല്യമായ സാഹചര്യത്തിലേക്ക് പോകുന്നു അതിനാൽ ഈ അക്ഷം K I by K II അനുപാതത്തിലാണ് ഈ അക്ഷം K II by K I അനുപാതത്തിൽ ആണ് ഈ പദപ്രയോഗത്തെ അടിസ്ഥാനമാക്കിയാണ് ഈ ഗ്രാഫുകൾ വരയ്ക്കുന്നത് ചുവന്ന ഡോട്ടുകളായി നിങ്ങൾ കാണുന്നത് അവ പരീക്ഷണത്തിൽ നിന്നുള്ളതാണ് ഞാൻ ഇത് വലുതാക്കാം K I ആധിപത്യം പുലർത്തുമ്പോൾ പരീക്ഷണാത്മക ഡാറ്റാ പോയിന്റ് പരമാവധി ടാൻജൻഷ്യൽ സ്ട്രെസ് മാനദണ്ഡങ്ങളുമായി പൊരുത്തപ്പെടുന്നു എന്ന് നിങ്ങൾക്ക് വ്യക്തമായി കാണാൻ കഴിയും K II പ്രബലമാകുമ്പോൾ നിങ്ങൾക്ക് അത്തരം നല്ല താരതമ്യം ഇല്ല പരമാവധി ടാൻജൻഷ്യൽ സ്ട്രെസ് മാനദണ്ഡം ആ കോണിനെ മൈനസ് 70 ന് ചുറ്റും നൽകുന്നു എന്നാൽ സ്ട്രെസ് ഫലം മൈനസ് 56 ആണ് ഇത് പ്രവചിച്ച മൂല്യത്തിൽ നിന്ന് അകലെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നതുപോലെ വിള്ളൽ ഒരു ദിശയിലേക്ക് വ്യാപിക്കുമെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും അതിനാൽ നിങ്ങൾക്ക് ഈ ആംഗിൾ minus of theta m ആയി ഉണ്ട് നിങ്ങൾക്ക് ശുദ്ധമായ മോഡ് II സാഹചര്യം ഉള്ളപ്പോൾ മറ്റ് സിദ്ധാന്തങ്ങൾ നൽകുന്നതും നമ്മൾ കാണും നിങ്ങൾക്ക് ശുദ്ധമായ മോഡ് I ഉള്ളപ്പോൾ വിള്ളൽ സ്വയം സമാനമായ രീതിയിൽ വളരുന്നു മോഡ് I പ്രബലമാകുമ്പോൾ സൈദ്ധാന്തികവും അതുപോലെ തന്നെ പരീക്ഷണാത്മക പ്രവചനങ്ങൾ ന്യായമായും പൊരുത്തപ്പെടുന്നു നിങ്ങൾക്ക് ലഭിച്ച expression എന്തായാലും നിരീക്ഷിച്ച ചില പ്രതിഭാസങ്ങളെ വിശദീകരിക്കുന്നുവെന്നതും ഇത് നിങ്ങൾക്ക് ഒരുതരം ആശ്വാസം നൽകുന്നു അടുത്തതായി നമ്മൾ ഒടിവ് ആരംഭിക്കുന്നതിനുള്ള അവസ്ഥ എന്താണ് എന്ന് നോക്കാൻ പോകുന്നു അവസാന ക്ലാസിൽ നമ്മൾ നിർത്തിയത് ഇവിടെയാണെന്ന് ഞാൻ കരുതുന്നു പരമ്പരാഗത ഡിസൈൻ സമീപനമാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ എന്നതാണ് ഞാൻ അറിയിക്കാൻ ആഗ്രഹിക്കുന്ന ആശയം പരമ്പരാഗത രൂപകൽപ്പന സമീപനത്തിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത് ഒരു യഥാർത്ഥ സാഹചര്യത്തിൽ നിങ്ങൾക്ക് സംയോജിത ലോഡിംഗ് ഉണ്ടായിരിക്കാം എന്നിരുന്നാലും yielding സംഭവിക്കുമോ ഇല്ലയോ എന്ന് വിലയിരുത്തുന്നതിന് നമ്മൾ ലളിതമായ ടെൻഷൻ പരിശോധനയുടെ ഫലം എടുക്കും Yield strength മൂല്യം എന്തുതന്നെയായാലും നിങ്ങളുടെ സംയോജിത ലോഡിംഗ് സാഹചര്യത്തിനും ഉചിതമായ രീതിയിൽ ഇത് ഉപയോഗിക്കുക നിങ്ങൾക്ക് ഒന്നിലധികം സിദ്ധാന്തങ്ങളുണ്ട് നിങ്ങൾക്ക് ട്രെസ്ക yield മാനദണ്ഡവും വോൺ മിസസ് yield മാനദണ്ഡവും ഉണ്ടായിരുന്നു നിങ്ങൾക്ക് ഒരു സിദ്ധാന്തമല്ല ഉള്ളത് എന്നാൽ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ഒരു ഭൌതിക വീക്ഷണകോണിൽ നിന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന പാരാമീറ്റർ എന്തുതന്നെയായാലും നിങ്ങൾ അത് ഒരൊറ്റ പരിശോധനയിൽ നിന്നാണ് ചെയ്യുന്നത് അതിനാൽ ഈ ഫ്രാക്ചർ അസ്ഥിരത വിശകലനത്തിലും തീറ്റ m ഇന്റെ ഏത് മൂല്യത്തിലും സിഗ്മ തീറ്റ തീറ്റയുടെ മൂല്യം എന്താണെന്ന് നിങ്ങൾ നോക്കുന്നു മോഡ് I സാഹചര്യത്തിൽ ഈ മൂല്യം K I K IC ലേക്ക് പോകുന്നു അതിനാൽ അതിന്റെ അടിസ്ഥാനത്തിൽ തീറ്റ m ന്റെ ഏത് മൂല്യത്തിനും നിങ്ങൾ ഇത് ഉപയോഗിക്കുന്നു അതിനാൽ അതിനർത്ഥം തന്നിരിക്കുന്ന പ്രശ്ന സാഹചര്യത്തിൽ K I K II എന്നിവ കണ്ടെത്തുന്നു വിള്ളൽ പ്രചരിക്കുമോ ഇല്ലയോ എന്ന് വിലയിരുത്തുന്നതിന് ഒരു മോഡ് I സാഹചര്യത്തിനായി ലഭിച്ച ഫ്രാക്ചർ toughness ഉപയോഗിക്കുക പരമ്പരാഗത രൂപകൽപ്പന സമീപനത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നതിന് സമാനമാണ് പരമ്പരാഗത വിശകലനത്തിൽ ലളിതമായ ടെൻഷൻ പരിശോധനയിൽ നിന്ന് നിങ്ങൾ yield ശക്തി എടുക്കുന്നു ഇവിടെസംയോജിത ലോഡിംഗ് സാഹചര്യമാണെങ്കിലും മോഡ് I fracture toughness ൽ മാത്രം നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എക്സ്പ്രഷൻ നമുക്ക് കിട്ടിയതെന്തും അത് K I cos ക്യൂബ് തീറ്റ എം ന് തുല്യമായി 2 മൈനസ് 3 K II cos സ്ക്വയർ തീറ്റ എം 2 കൊണ്ട് ഹരിക്കുന്നു ഇതുമായി പരീക്ഷണങ്ങൾ പൊരുത്തപ്പെടുന്നതായി ആളുകൾ കണ്ടെത്തി അതാണ് നിങ്ങൾ ഇവിടെ കാണുന്നത് x y അക്ഷത്തിൽ പ്ലോട്ട് ചെയ്ത K I K II എന്നിവയുടെ ഡാറ്റ നിങ്ങളുടെ പക്കലുണ്ട് നിങ്ങൾ ഇത് രണ്ട് വ്യത്യസ്ത മെറ്റീരിയലുകൾ കാര്യങ്ങൾക്കായി ചെയ്തു സർക്കിളുകളും ത്രികോണങ്ങളും പരീക്ഷണങ്ങളിൽ നിന്നുള്ളതാണ് നിങ്ങൾക്ക് K IC തുല്യമായ K I cos ക്യൂബ് തീറ്റ m 2 മൈനസ് 3 K II cos സ്ക്വയർ തീറ്റ m ബൈ 2 sin തീറ്റ m ബൈ 2 എന്ന നിബന്ധനയിൽ നിന്നാണ് ഈ വരി അതിനാൽ നിങ്ങൾ ചെയ്യേണ്ടത് തന്നിരിക്കുന്ന പ്രശ്നത്തിൽ തന്നിരിക്കുന്ന ലോഡിംഗിനായി K I K II എന്നിവയുടെ മൂല്യം കണ്ടെത്തുക എന്നതാണ് ഏത് വിള്ളലിന് പ്രചരണം നൽകാനാകുമെന്ന് നിർണ്ണയിക്കുക അതിനാൽ ആ തീറ്റ m ഉപയോഗിച്ച് ഈ അളവ് K IC ക്ക് തുല്യമാണോ എന്ന് കണ്ടെത്തുക ഇത് K IC ക്ക് തുല്യമാണെങ്കിൽ ആ പ്രത്യേക ദിശയിൽ ഒടിവ് സംഭവിക്കും ഒരു തരം മെറ്റീരിയലുകൾക്ക് ഇത് തൃപ്തികരമാണെന്ന് കണ്ടെത്തി കാരണം വോൺ മിസസ് ട്രെസ്ക എന്നിവ പോലെ അവ എല്ലാ മെറ്റീരിയലുകൾക്കും ബാധകമല്ല ചില വസ്തുക്കൾ ട്രെസ്കയേക്കാൾ മികച്ച വോൺ മിസസ് മാനദണ്ഡങ്ങൾ അനുസരിക്കുന്നു

അതിനാൽ ഫ്രാക്ചർ ലും നിങ്ങൾക്ക് ഒന്നിലധികം സിദ്ധാന്തങ്ങൾ ഉണ്ടാകും ആളുകൾ ഇപ്പോഴും പ്രവർത്തിക്കുന്നു വിശ്വസനീയമായ സമഗ്ര സിദ്ധാന്തം ഇതുവരെ വികസിപ്പിച്ചിട്ടില്ല നിങ്ങളുടെ സ്വന്തം ആപ്ലിക്കേഷനായി നിങ്ങൾ സിദ്ധാന്തം കണ്ടെത്തണം K IC യുടെ പരിമിതപ്പെടുത്താവുന്ന മൂല്യം എന്താണെന്നും നിങ്ങൾക്ക് ഉണ്ട് അത് K IC യുടെ അടിസ്ഥാനത്തിൽ പ്രകടിപ്പിക്കാം അത്തരം പദപ്രയോഗങ്ങൾ അൽപ്പസമയത്തിനുശേഷം നമ്മൾ കാണും Strain Energy density Criterion ഇപ്പോൾ നമ്മൾ അടുത്ത സിദ്ധാന്തത്തിലേക്ക് നീങ്ങുന്നു അത് strain energy density മാനദണ്ഡം ആണ് നിങ്ങൾ ഇവിടെ പറയുന്നത് minimum strain energy density യുടെ ദിശയിൽ വിള്ളൽ വളർച്ച സംഭവിക്കും എന്നാണ് അതിനാൽ നിങ്ങൾക്ക് S ഉണ്ട് അത് തീറ്റയുടെ ഒരു ഫംഗ്ഷനാണ് അതിനെ r ന് തുല്യമായി r കൊണ്ട് a 11 K I I സ്ക്വയറും 2 a12 K I K II പ്ലസ് a22 K II സ്ക്വയറും കൊണ്ട് ഹരിക്കുന്നു ഈ coefficients നിർവചിക്കപ്പെടുന്നു ഈ ഗുണകങ്ങളെ kappa യുടെ മൂല്യം ഉപയോഗിച്ച് നിർവചിച്ചിരിക്കുന്നു Kappa ഉചിതമായി തിരഞ്ഞെടുക്കുന്നതിലൂടെ നിങ്ങൾക്ക് plane stress നും plane strain നും എക്സ്പ്രഷൻ ലഭിക്കും നോക്കൂ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം maximum ടാൻജൻഷ്യൽ സ്ട്രെസ് മാനദണ്ഡത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ ഒരിക്കലും plane സമ്മർദ്ദത്തെക്കുറിച്ചോ plane strain നെക്കുറിച്ചോ ചർച്ച ചെയ്തിട്ടില്ല അതേസമയം നിങ്ങൾ strain energy density മാനദണ്ഡത്തിനായി വരുമ്പോൾ നിങ്ങൾക്ക് പ്രത്യേക പദപ്രയോഗങ്ങൾ ലഭ്യമാണ് A11 നെ 1 by 16 G into pi എന്ന് നൽകുന്നു ഇവിടെ G എന്നത് shear modulus multiplied by 1 plus cos theta kappa minus cos theta a12 equal to 1 by 16 G pi sin theta 2 cos theta minus kappa plus 1 a22 is 1 by 16 G pi kappa plus 1 multiplied by 1 minus cos theta plus 1 plus cos theta multiplied by 3 cos theta minus 1 എന്നാകുന്നു ഞാൻ 3 മൈനസ് 4 ന്യൂവിന് തുല്യമായ kappa ഉപയോഗിക്കുമ്പോൾ ഈ എക്സ്പ്രഷൻ plane strain നുള്ളതാണ് Kappa യെ 3 മൈനസ് ന്യൂയു ഉപയോഗിച്ച് 1 പ്ലസ് ന്യൂയുവായി വിഭജിക്കുമ്പോൾ അത് plane stress ന് വേണ്ടിയാണ് അതിനാൽ വിള്ളൽ ആരംഭിക്കുന്ന ദിശ എങ്ങനെ കണക്കാക്കാമെന്നും K I K II ഒടിവുകൾ ഏതെല്ലാം സംയോജനത്തിന് തുടക്കം കുറിക്കാമെന്നും ഇവിടെ വീണ്ടും കണ്ടെത്താനാകും നമ്മൾ വീണ്ടും ലളിതമായ mode I ലേക്ക് മടങ്ങും അതിനാൽ നമ്മൾ വീണ്ടും K IC മാത്രമേ ഉപയോഗിക്കൂ വിള്ളൽ വളർച്ചയെ വിലയിരുത്താൻ നമ്മൾ K IC K IIC എന്നിവ ഉപയോഗിക്കില്ല അതിനാൽ ഇത് നിങ്ങളുടെ പരമ്പരാഗത നടപടിക്രമവുമായി വളരെ സാമ്യമുള്ളതാണ് അതിനാൽ S ഏറ്റവും കുറഞ്ഞ ദിശയിൽ ക്രാക്ക് എക്സ്റ്റൻഷൻ സംഭവിക്കുമെന്ന് നമ്മൾ ഇതിനകം സൂചിപ്പിച്ചു തീറ്റ m dS ൽ നിന്ന് d തീറ്റ 0 ന് തുല്യവും നിങ്ങളുടെ d സ്ക്വയേർഡ് S പ്രകാരം d തീറ്റ സ്ക്വയറും 0 നേക്കാൾ കൂടുതലായിരിക്കണം അതിനാൽ നിങ്ങൾക്ക് ഒന്നിലധികം റൂട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ അവസ്ഥ പരിശോധിച്ച് ഒരു റൂട്ട് മാത്രം തിരിച്ചറിയുക അതിനാൽ S ഒരു മെറ്റീരിയലിനെ ആശ്രയിച്ചുള്ള നിർണായക മൂല്യം S c S critical നേടുന്ന ഘട്ടത്തിൽ തീറ്റ m വഴി ക്രാക്ക് വിപുലീകരണം സംഭവിക്കുന്നു ഇവിടെ വീണ്ടും മോഡ് I രക്ഷാപ്രവർത്തനത്തിലേക്ക് വരുന്നു മോഡ് I ൽ വിള്ളൽ വളർച്ച സ്വയം സമാനമാണ് നോക്കൂ ആളുകൾ കണ്ടെത്തിയത് നിങ്ങൾക്ക് ഒരു മിക്സഡ് മോഡ് ലോഡിംഗിലും ഒരു വിള്ളൽ ഉണ്ടെങ്കിൽ സമ്മർദ്ദം ഉണ്ടാകുന്ന രീതിയിൽ വിള്ളൽ പ്രചരിപ്പിക്കുംഅത് ഒരു മോഡ് Iവിള്ളൽ ആയി മാറും മോഡ് II മോഡ് III എന്നിവയുടെ പങ്ക് ക്രാക്ക് പാത വഴിതിരിച്ചുവിടുക എന്നതാണ് അങ്ങനെയാണ് വിള്ളൽ സ്വയം വിന്യസിക്കുന്നത് മോഡ് I ൽ നമ്മൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നു ഇത് പരാജയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രീതികളാണ് അതിനാൽ നിങ്ങൾ ഇവിടെ കണ്ടെത്തുന്നത് മോഡ് I ൽ ക്രാക്ക് എക്സ്റ്റൻഷൻ സ്വയം സമാനമാണ് അതിനാൽ തീറ്റ m 0 ന് തുല്യമാണ് സ്ട്രെയിൻ എനർജി ഡെൻസിറ്റി നിർണ്ണായക മൂല്യം എന്താണെന്ന് കണ്ടെത്തുക ഉചിതമായവയ്ക്ക് പകരമായിട്ടാണ് ഈ എക്സ്പ്രഷൻ നൽകുന്നത് നിങ്ങൾക്ക് ഇത് a11 K IC സ്ക്വയറിന് തുല്യമായ S c ലഭിക്കും നിങ്ങൾ ഇതിനെ ലളിതമാക്കുകയാണെങ്കിൽ ഇതിന് K I റോൾ മാത്രമേയുള്ളൂ K II ന്റെ റോൾ ഒന്നുമില്ല S c becomes 2 into kappa minus 1 divided by 16 G pi multiplied by K IC square ആയി മാറുന്നു നിങ്ങൾ ഇവിടെ കണ്ടെത്തുന്നത് ജനറിക് ലോഡിംഗിലെ വിള്ളൽ വളർച്ചയെക്കുറിച്ച് അന്വേഷിക്കാൻ സ്ട്രെയിൻ എനർജി ഡെൻസിറ്റി ഈ നിർണ്ണായക മൂല്യം ഉപയോഗിക്കുന്നു നിങ്ങൾ നോക്കുകയാണെങ്കിൽ പദപ്രയോഗം ഇങ്ങനെയായിരിക്കും അതിനാൽ സ്ട്രെയിൻ എനർജി ഡെൻസിറ്റി മാനദണ്ഡത്തിന്റെ കാര്യത്തിൽ K I K II എന്നിവയുടെ മൂല്യങ്ങൾ ലോഡുചെയ്യുന്നതിനായി നിങ്ങൾ കണ്ടെത്തുന്നു ഈ മൂല്യം കണ്ടെത്തുക16 G pi divided by 2 into kappa minus 1 a11 K I square plus 2 a12 K I K II plus a22 KII square എന്നിങ്ങനെ വിഭജിച്ചിരിക്കുന്നു അങ്ങനെ തീറ്റ m ന് തുല്യമായ തീറ്റയെ എക്സ്പ്രഷനുകളിൽ whole power half K IC തുല്യമായാൽ തീറ്റ m ഒരു കോണിൽ വിള്ളൽ ആരംഭിക്കും സ്ട്രെയിൻ എനർജി ഡെൻസിറ്റി മാനദണ്ഡമാണ് ഇത് നൽകുന്നത് principal സമ്മർദ്ദ മാനദണ്ഡം അല്ലെങ്കിൽ maximum ടാൻജൻഷ്യൽ സ്ട്രെസ് മാനദണ്ഡം നിങ്ങൾക്ക് K I cos ക്യൂബ് തീറ്റ m 2 മൈനസ് 3 K II cos സ്ക്വയർ തീറ്റ എം 2 sin തീറ്റ m 2 കൊണ്ട് ഹരിക്കുന്നു ഇത് K IC ക്ക് തുല്യമാണെങ്കിൽ ക്രാക്ക് initiation സംഭവിക്കും അതിനാൽ നിങ്ങൾക്ക് കുറഞ്ഞത് രണ്ട് സിദ്ധാന്തങ്ങളെങ്കിലും ഉണ്ട് ഞാൻ കാണിച്ചു നിങ്ങൾ ഒരു യഥാർത്ഥ ജീവിത സാഹചര്യത്തിനായി പോകുമ്പോൾ അവ ഒരേ ഫലം നൽകില്ലെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കണം Comparison of crack growth and critical value of KII by MTS and SED അതിനാൽ ഒരു ശുദ്ധമായ മോഡ് II കേസ് നമ്മൾ കാണും ഈ സിദ്ധാന്തങ്ങൾ മൂല്യങ്ങൾ നൽകുന്ന രീതി എപ്രകാരമാണ് ശുദ്ധമായ മോഡ് II ന്റെ കാര്യത്തിൽ വിള്ളൽ വളർച്ച ഒരു കോണിലാണ് വിള്ളൽ ഇതുപോലെ വളരുമെന്ന് നമ്മൾ ഇതിനകം കണ്ടു നമ്മൾ അടുത്തിടെ നോക്കിയ രണ്ട് സിദ്ധാന്തങ്ങളിൽ നിന്നുള്ള ഫലങ്ങൾ നോക്കുകയാണെങ്കിൽ maximum ടാൻജൻഷ്യൽ സ്ട്രെസ് മാനദണ്ഡം ഈ കോണിനെ മൈനസ് 70 6 ഡിഗ്രിയായി പ്രവചിക്കുന്നു K II ന്റെ നിർണായക മൂല്യം K IC യുടെ 0 866 ഇരട്ടിയാണ് മറുവശത്ത് നിങ്ങൾ സ്ട്രെയിൻ എനർജി ഡെൻസിറ്റി മാനദണ്ഡത്തിനായി പോയാൽ പോയിസൺ അനുപാതം equal to 1 by 3 പരിഗണിക്കുകയാണെങ്കിൽ നിങ്ങൾ plain സ്ട്രെയിൻ സാഹചര്യം കണക്കിലെടുക്കുകയാണെങ്കിൽ ക്രാക്ക് എക്സ്റ്റൻഷൻ ആംഗിൾ മൈനസ് 83 62 ഡിഗ്രിയാണ് വ്യക്തമായും അവ ഒരു കാഴ്ചപ്പാടിൽ നിന്ന് പൊരുത്തപ്പെടുന്നില്ല രണ്ടും നെഗറ്റീവ് ദിശയിൽ ക്രാക്ക് ഗ്രോത്ത് ആംഗിൾ നൽകുന്നുവെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുന്ന മറ്റൊരു കാഴ്ചപ്പാട് അവ അകലെയല്ല നിങ്ങൾക്കറിയാമോ ഇതാണ് നിങ്ങൾ നോക്കേണ്ടത് വിള്ളൽ ആരംഭിക്കുന്ന മൂല്യം എന്താണ് ഒരു കേസിൽ ഇത് 0 866 മടങ്ങ് K IC യാണ് SED ൽ ഇത് 0 905 K IC യാണ് ഇവിടെ കുറഞ്ഞത് വ്യത്യാസം അത്രയല്ല അതിനാൽ ഇത് നിങ്ങൾ അംഗീകരിക്കേണ്ടിവരും പ്രശ്നം വളരെ സങ്കീർണ്ണമാണ് നിങ്ങൾക്ക് സാധുവായ ഒരു സിദ്ധാന്തം ഇല്ല അത് മോഡ് I ആധിപത്യം പുലർത്തുമ്പോൾ ഉപയോഗപ്രദമാണ് പക്ഷേ മോഡ് II പ്രബലമാകുമ്പോൾ അവ ശരിക്കും നല്ലതല്ല അതാണ് റിസൾട്സ് കാണിക്കുന്നത് Experimental work of Wu അതിനാൽ ആളുകൾ എന്താണ് ചിന്തിച്ചത് അനുഭവപരമായ സമീപനങ്ങളെ അടിസ്ഥാനമാക്കി സിദ്ധാന്തങ്ങൾ വികസിപ്പിക്കുന്നതിനായി ആളുകൾ പോയി അതും നമ്മൾ കാണും 1967 ൽ Wu ന്റെ ഒരു പരീക്ഷണാത്മക കൃതി ഉണ്ടായിരുന്നുവെന്ന് നിങ്ങൾക്കറിയാം ഓർത്തോട്രോപിക് വസ്തുക്കളായ ബൽസ വുഡ് ഫൈബർ ഗ്ലാസ് reinforced പ്ലാസ്റ്റിക് പ്ലേറ്റുകൾ എന്നിവയിൽ അദ്ദേഹം നിരവധി പരീക്ഷണങ്ങൾ നടത്തി ഇവയിൽ ബൽസ wood ധാന്യത്തിന്റെ ദിശയിലും ഫൈബർ ഗ്ലാസ് reinforced പ്ലാസ്റ്റിക് പ്ലേറ്റുകളിലെ ഫൈബർ ദിശയിലും വിള്ളലുകൾ പരിഗണിക്കപ്പെട്ടു Specimen കൾ വിള്ളലിന് ലംബമായി pure tension combined tension shear and pure shear ൽ പരീക്ഷിച്ചു അതിനാൽ ഇത് മോഡ് I മിക്സഡ് മോഡ് ശുദ്ധമായ മോഡ് II എന്നിവയ്ക്കായി ചെയ്തു ഈ സന്ദർഭങ്ങളിലെല്ലാം വിള്ളലുകൾ പ്രധാനമായും നേർരേഖയിലുള്ള യഥാർത്ഥ വിള്ളൽ കൊളീനിയറിനൊപ്പം വ്യാപിക്കുന്നതായി കണ്ടെത്തി അതിനാൽ നിങ്ങൾ ഇതിനെ കോപ്ലാനാർ ക്രാക്ക് എക്സ്റ്റൻഷൻ അല്ലെങ്കിൽ സ്വയം സമാനമായ ക്രാക്ക് വളർച്ച എന്ന് വിളിക്കും ഇതാണ് Wu നിരീക്ഷിച്ചത് അദ്ദേഹം ഓർത്തോട്രോപിക് മെറ്റീരിയലുകൾ കൈകാര്യം ചെയ്തു ഇത് ഒരു ഐസോട്രോപിക് മെറ്റീരിയലല്ല K I by K IC power a plus K II by K IIC power b equal to 1 എന്ന ഫോമിന്റെ അനുഭവസമ്പന്നമായ ബന്ധം യുക്തിസഹമായി സ്വഭാവത്തെ മാതൃകയാക്കുന്നുവെന്ന് അദ്ദേഹം കണ്ടെത്തി അദ്ദേഹം പരിഗണിച്ച കേസുകളിൽ a equal to 1 and b equal to 2 മതിയെന്ന് കണ്ടെത്തി നോക്കൂ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കണം അന്തിമ പദപ്രയോഗം അനുഭവേദ്യമായ രീതിയിലാണ് ലഭിക്കുന്നത് ഈ അനുഭവബന്ധം ഫലത്തിലെത്താൻ മോഡ് I മോഡ് II എന്നിവയിലെ fracture toughness ഉപയോഗിക്കുന്നു മുമ്പത്തെ കേസുകളിൽ നമ്മൾ K IC മാത്രമാണ് ഉപയോഗിച്ചിരുന്നത് ഇവിടെ K IC K IIC എന്നിവ ഉപയോഗിക്കുന്നു അതിന്റെ ഫോം ഇതുപോലെ നൽകിയിരിക്കുന്നു K I by K IC power a plus K II by K IIC power b equal to 1 ഇത് ഒരു അനുഭവപരമായ സമീപനത്തിൽ നിന്നാണ് അദ്ദേഹം പ്രസിദ്ധീകരിച്ച പ്രബന്ധമാണിത് ഇത് 1967 ലായിരുന്നു 'Application of fracture mechanics to anisotropic plates' ASME ജേണൽ ഓഫ് അപ്ലൈഡ് മെക്കാനിക്സ് 967 മുതൽ 974 പേജുകളിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ആളുകൾ ഇത് മുതലെടുക്കുകയും K I K II എന്നിവയുടെ പ്രവർത്തനമായി type of variation ചിത്രീകരിക്കുന്ന ഗ്രാഫുകളും നിങ്ങളുടെ പക്കലുണ്ട് നിങ്ങൾക്ക് ഇവിടെയുള്ളത് എനിക്ക് ഒരു ഗ്രാഫ് വരച്ചിട്ടുണ്ട് അത് അടിസ്ഥാനപരമായി ഒരു സർക്കിൾ ആണ് എനിക്ക് ഇത് K I squared plus K II squared equal to K IC squared എന്നാണ് ലഭിക്കുന്നത് ഇത് നിങ്ങളുടെ എനർജി ബാലൻസ് മാനദണ്ഡത്തിൽ നിന്നാണ് കോപ്ലാനാർ ക്രാക്ക് വിപുലീകരണത്തിന് മാത്രമേ ഇത് സാധുതയുള്ളൂ ഇവിടെ എപ്പോൾ നിങ്ങൾ ഗ്രാഫ് K I by K IC whole squared plus K II by K IIC whole squared equal to 1 എന്ന് എടുക്കുന്നുഅപ്പോൾ a equal to 2 and b equal to 2 എന്ന് എടുക്കുന്നു ഇത് K IC യും K IIC യും ഉപയോഗിക്കുന്ന ഒരു ellipse ന്റെ സമവാക്യമാണ് സാഹിത്യം പറയുന്നത് കോപ്ലാനർ അല്ലാത്ത വിപുലീകരണത്തിനും അത്തരമൊരു പദപ്രയോഗം ഉപയോഗപ്രദമാണ് കാരണം ഇത് ഒരു അനുഭവാത്മക സൂത്രവാക്യമാണ്എനർജി ബാലൻസ് മാനദണ്ഡത്തിൽ നിന്നാണെങ്കിൽ നിങ്ങൾക്ക് K I squared plus K II squared equal to K IC squared മാത്രമേ ഉണ്ടാകൂ K IC സ്ക്വയറും K IIC സ്ക്വയറും നിങ്ങൾ ഉചിതമായി വിഭജിച്ചാൽ ഫോർമുലേഷൻ അനുഭവാത്മകമാണ് മോഡ് I മോഡ് II മോഡ് III എന്നിവയുടെ സംയോജനത്തിനും ആളുകൾ ഇത് ചെയ്തു K I by K IC whole square plus K II by K IIC whole square plus 1 by 1 minus nyu multiplied by K III by K IIIC whole square equal to 1 എന്ന എക്സ്പ്രഷനുകൾ ഒരു പ്ലെയിൻ സ്ട്രെയിൻ സാഹചര്യത്തെപ്പോലെയാണ് കാണപ്പെടുന്നത് നോക്കൂ വിള്ളൽ വളർച്ചാ ദിശ ഇവിടെ അവസാനിക്കുന്നില്ല വിള്ളൽ ടിപ്പിന് സമീപമുള്ള നിരീക്ഷണങ്ങളിലൊന്നായി ആളുകൾ കിങ്കിംഗ് നിരീക്ഷിച്ചു ആളുകൾ ക്രാക്ക് കർവിംഗും നിരീക്ഷിച്ചിട്ടുണ്ട് ഇതിനെല്ലാം നിങ്ങൾ മികച്ച മോഡലുകൾക്കായി പോകേണ്ടതുണ്ട് ആളുകൾ ഇപ്പോൾ ഉയർന്ന ഓർഡർ പദങ്ങളുടെ സ്വാധീനം നോക്കുന്നു അതോടെ മാത്രമേ ഈ ദിശകൾ തൃപ്തികരമായി പ്രവചിക്കാൻ കഴിയൂ അതിനാൽ ഈ പ്രദേശം ഗവേഷണത്തിനായി തുറന്നിരിക്കുന്നു അതിനാൽ കൂടുതലറിയാൻ നിലവിലെ സാഹിത്യത്തെ സമീപിക്കുന്നതതിനെ ഞാൻ അഭിനന്ദിക്കുന്നു Crack Arrest Principle ഇപ്പോൾ ക്രാക്ക് അറസ്റ്റും റിപ്പയർ രീതികളെക്കുറിച്ചും ഉള്ള സുപ്രധാന അധ്യായത്തിലേക്ക് നമ്മൾ നീങ്ങുന്നു ക്രാക്ക് അറസ്റ്റിന്റെ ആവശ്യകത എന്താണ് വ്യക്തമായും വിള്ളലിനെ അറസ്റ്റുചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഘടകത്തിന്റെ ആയുസ്സ് വർദ്ധിപ്പിക്കാൻ കഴിയും അതിനാൽ ഫ്രാക്ചർ മെക്കാനിക്സിന്റെ ലക്ഷ്യങ്ങളിലൊന്ന് inherent flaws കളുടെ സാന്നിധ്യത്തിൽ ഒരു ഘടകത്തിന്റെ ആയുസ്സ് വർദ്ധിപ്പിക്കുക എന്നതാണ് കാരണം നിങ്ങൾ നോക്കുകയാണെങ്കിൽ അമ്പത് മുതൽ അറുപത് വർഷം മുമ്പ് നിർമ്മിച്ച പല പാലങ്ങളും ഇപ്പോൾ അവയിലെല്ലാം ക്രാക്കുകൾ വികസിച്ചു നിങ്ങൾ ഇത് സംരക്ഷിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ അവ പുനർനിർമ്മിക്കണം അതിനാൽ ആളുകൾ repairing സാങ്കേതികവിദ്യ വികസിപ്പിച്ചെടുക്കുന്നു അതിനാൽ അവർക്ക് കൂടുതൽ സമയം ലാഭിക്കാൻ കഴിയും അതിനാൽ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് ഫ്രാക്ചർ മെക്കാനിക്സ് മനസ്സിലാക്കൽ ഇത് ചെയ്യാൻ സഹായിക്കുന്നു ഒരു വിള്ളൽ കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മൾ എല്ലായ്പ്പോഴും അതിന്റെ വളർച്ച നിരീക്ഷിക്കേണ്ടതുണ്ട് വിള്ളൽ എങ്ങനെ വളരുമെന്ന് പറയുന്ന സിദ്ധാന്തങ്ങളും നമുക്കുണ്ട് അതിനാൽ ഏതൊക്കെ ഇടവേളകളിൽ തുടങ്ങിയവ എങ്ങനെ പരിശോധിക്കാമെന്നും നമ്മൾ അറിയും അതിനാൽ വിള്ളൽ എങ്ങനെ വളരുന്നുവെന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ മുന്നേറുന്ന ഒരു വിള്ളൽ തടയാൻ നിങ്ങൾ നടപടികൾ കൈക്കൊള്ളുന്നു ഇത് ഒരു സമീപനമാണ് ക്രാക്ക് റീ ഇനീഷ്യേഷൻ സമയം വൈകിക്കുക എന്നതാണ് മറ്റ് സമീപനം അതിനാൽ നിങ്ങൾ എങ്ങനെ വിള്ളൽ നിർത്തുന്നു ക്രാക്ക് സ്റ്റിഫെനറുകളും പാച്ചുകളും അവതരിപ്പിക്കുക അത് വളരെ വ്യക്തമാണ് നിങ്ങൾക്കറിയാമോ നിങ്ങൾക്ക് ഒരു കാറുണ്ടെങ്കിൽഒരു പ്ലാസ്റ്റിക് കവർ ഉണ്ടെങ്കിൽ അത് സ്ഥിരമായി ഒരു വിള്ളൽ ഉണ്ടാക്കും അതിനാൽ ഇത് എങ്ങനെ നിർത്തണമെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം ഏത് രീതിയിലാണ് നിങ്ങൾ ടേപ്പ് ക്രാക്ക് ദിശയിലോ ലംബമായോ ഇടുക എന്നതാണ് ചോദ്യം നമ്മൾ ഇതിനു ഒരു ഉത്തരം കാണും വിള്ളൽ ഭേദമാക്കുന്നതാണ് മറ്റ് നടപടികൾ ഇത് ഇപ്പോൾ മനസ്സിലാക്കുന്നുവെന്ന് നിങ്ങൾക്കറിയാം ബയോളജിക്കൽ സിസ്റ്റങ്ങളിൽ നിന്നാണ് സ്വാധീനം ആളുകൾ self healing composite കളും വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് ലോഡ് ബെയറിംഗ് അംഗമല്ലാത്ത ചില ആപ്ലിക്കേഷനുകളിൽ തകർന്ന ഘടകം വീണ്ടും ഉപയോഗിക്കുന്നതിന് ആവശ്യമായ റിപ്പയർ സാങ്കേതികവിദ്യകൾ പ്രയോഗിക്കാമെന്ന് നിങ്ങൾക്കറിയാം അതും ആവശ്യമാണ് നിങ്ങളുടെ തുണി തുന്നുന്നതുപോലെ മെറ്റാലിക് സ്റ്റിച്ചിംഗും നിങ്ങൾക്കറിയാം ഒരു വിലയ്ക്ക് ഇത് ചെയ്യാൻ തയ്യാറായ കമ്പനികളുണ്ട് അതിനാൽ നമുക്ക് അതിനെക്കുറിച്ച് ഒരു ഹ്രസ്വ വീക്ഷണവും ഉണ്ടാകും ക്രാക്ക് അറസ്റ്റ് രീതികളിലെ ഭൌതികശാസ്ത്രം എന്താണ് അതിനാൽ ഊർജ്ജ പ്രകാശന നിരക്കിനെക്കുറിച്ചും പ്രതിരോധത്തെക്കുറിച്ചും നമ്മൾ മനസ്സിലാക്കുന്നതിലേക്ക് മടങ്ങും നമ്മൾ ideal brittle സോളിഡ് എടുക്കുന്നു നിങ്ങൾക്ക് ഇവിടെ ഉള്ളത് ഒരു നിശ്ചിത ലോഡിംഗിനായി G വർദ്ധിക്കുന്നു അതിനാൽ ക്രാക്ക് വർദ്ധിക്കുന്നു ചില സംവിധാനങ്ങളിലൂടെ നിങ്ങൾക്ക് G കൊണ്ടുവരാൻ കഴിയും അതിനാൽ നിങ്ങൾ കണ്ടെത്തുന്നത് G യുടെ ചില മൂല്യത്തിൽ വിള്ളൽ അറസ്റ്റുചെയ്യാൻ തുടങ്ങും അത് മറ്റേതെങ്കിലും ഉയർന്ന മൂല്യത്തിൽ പൂർണ്ണമായും അറസ്റ്റുചെയ്യും അതിനാൽ അറസ്റ്റിനുള്ള സാധ്യത ചർച്ച ചെയ്യാൻ G R ആശയം വളരെ ഉപയോഗപ്രദമാണ് ഊർജ്ജ ലഭ്യത പ്രതിരോധത്തെക്കാൾ വളരെ താഴെയാണ് അതിനാൽ വിള്ളൽ അറസ്റ്റുചെയ്യേണ്ടതുണ്ട് അതിനാൽ നിങ്ങൾക്ക് പ്രാരംഭ നിർണായക വിള്ളൽ ആയി c ഉണ്ട് അറസ്റ്റിന്റെ ആരംഭത്തിൽ വിള്ളലിന്റെ നീളം സൂപ്പർസ്ക്രിപ്റ്റ് b ആണ് ഇത് സൂപ്പർസ്ക്രിപ്റ്റ് e ആകുമ്പോൾ വിള്ളൽ പൂർണ്ണമായും അറസ്റ്റുചെയ്യപ്പെടും അതിനാൽ G കൊണ്ടുവരുന്ന ഒരു സംവിധാനം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം അത് ഒരു പാച്ച് ഇടുന്നതിലൂടെ ഫലപ്രദമായി ചെയ്യപ്പെടും നിങ്ങൾ ഒരു പാച്ച് ഇടുക G താഴേക്ക് കൊണ്ടുവരാം വലുപ്പം എന്തായിരിക്കണം എന്നതാണ് ഇപ്പോൾ ചോദ്യം ലൊക്കേഷൻ എന്തായിരിക്കണം മെറ്റീരിയൽ എന്തായിരിക്കണം അതിൽ നിരവധി പാരാമീറ്ററുകൾ ഘടിപ്പിച്ചിരിക്കുന്നു ഇത് അടിസ്ഥാനപരമായി ക്രാക്ക് അറസ്റ്റിലെ തത്വത്തെ വ്യക്തമാക്കുന്നു ഞാൻ G യുടെ മൂല്യം കുറയ്ക്കണം അതാണ് ഭൌതികശാസ്ത്രം നമുക്ക് എന്ത് ചെയ്യാനാകുമെന്ന് നമ്മൾ കാണും ഇരട്ട കാന്റിലിവർ ബീം മാതൃകയെക്കുറിച്ചുള്ള നിങ്ങളുടെ അറിവിലേക്ക് നിങ്ങൾ ശരിക്കും മടങ്ങുകയാണെങ്കിൽ പാരാമീറ്ററുകൾ മാതൃകയുടെ ജ്യാമിതീയ പാരാമീറ്ററുകൾ ക്രാക്ക് വളർച്ചയുടെ ഒരു പ്രവർത്തനമായി constant G അല്ലെങ്കിൽ കുറയുന്ന G ഉണ്ടായിരിക്കാൻ അനുയോജ്യമായി തിരഞ്ഞെടുക്കാം അതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ഒരു പരീക്ഷണം നടത്താനും ക്രാക്ക് അറസ്റ്റ് സാധ്യമാണെന്ന് തൃപ്തിപ്പെടുത്താനും കഴിയും മറ്റൊരു സമീപനം ഒരു പാച്ച് ഇടുന്നു Patched Cracks അതിനാൽ നിങ്ങൾക്ക് ഒരു ബാഹ്യ പാച്ച് ഉണ്ട് നിങ്ങൾ ഇവിടെ കണ്ടെത്തുന്നത് പാച്ച് AB യെക്കാൾ ക്രാക്ക് ടിപ്പ് അല്പം മുന്നിലാണെങ്കിൽ പാച്ച് കൂടുതൽ ഫലപ്രദമാണ് അതിനർത്ഥം പാച്ച് ഇവിടെ ഇടരുത് എവിടെയെങ്കിലും വയ്ക്കുക അടിസ്ഥാനപരമായി നിങ്ങൾ ആ സ്ഥലത്തെ കാഠിന്യം വർദ്ധിപ്പിക്കുകയാണ് അതിനാൽ ഊർജ്ജ പ്രകാശന നിരക്ക് കുറയുന്നു നിങ്ങൾ മുമ്പ് കണ്ട അതേ ഗ്രാഫ് ഇതാണ് അതിനാൽ പാച്ച് കാരണം നിങ്ങൾക്കറിയാമോ ഈ വിള്ളൽ വരുമ്പോൾഒരു വിള്ളൽ അറസ്റ്റുചെയ്യപ്പെടും ലോഡ് കൂടുന്നതിനനുസരിച്ച് വിള്ളൽ വീണ്ടും ആരംഭിക്കാനും കൂടുതൽ വളരാനും കഴിയും ഫോട്ടോഇലാസ്റ്റിക് ഫ്രിഞ്ച് പാറ്റേണിൽ നിന്നുള്ള വിള്ളലിന്റെ തീവ്രത നമ്മൾ നേരത്തെ പരിശോധിച്ചു ഫോട്ടോഇലാസ്റ്റിക് ഫ്രിഞ്ച് പാറ്റേണിൽ നിന്നുള്ള പാച്ചിന്റെ ഫലപ്രാപ്തിയെക്കുറിച്ചും നമ്മൾ അന്വേഷിക്കും ഒപ്പം ഞാൻ ഒരു പാച്ച് പറഞ്ഞുകഴിഞ്ഞാൽ എനിക്ക് അത് ഇരുവശത്തും അല്ലെങ്കിൽ ഒരു വശത്തും ഇടാം ഈ വ്യതിയാനങ്ങളെല്ലാം സാധ്യമാണ് അതിനാൽ ഫോട്ടോഇലാസ്റ്റിക് fringes എങ്ങനെയായിരിക്കുമെന്ന് നമ്മൾ കാണും അതിനാൽ നിങ്ങൾക്ക് ഇവിടെയുള്ളത് നിങ്ങൾ ഇത് രേഖപ്പെടുത്തേണ്ടതില്ല ഇത് എനിക്ക് ഒരു വിള്ളൽ ഉണ്ടെന്ന് ഒരു സൂചന നൽകുന്നു പാച്ച് എങ്ങനെ ഇടുന്നു പാച്ച് വിള്ളലിന് ലംബമായി ഇടുന്നു ഈ ക്രമീകരണമാണ് വിള്ളൽ അറസ്റ്റുചെയ്യാൻ സഹായിക്കുന്നത് ഫ്രിഞ്ച് പാറ്റേണുകൾ എങ്ങനെ ആണെന്ന് നമ്മൾ കാണും എല്ലാ പാരാമീറ്ററുകളും നിങ്ങൾക്ക് അറിയാം നിങ്ങൾക്ക് ഇരുവശത്തും പാച്ച് ഇടാൻ കഴിയുമോ ഉദാഹരണത്തിന് നിങ്ങൾ വിമാന ഘടകങ്ങളിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു വശം മാത്രമേ ദൃശ്യമാകൂ മറുവശത്ത് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ കഴിയില്ല അതിനാൽ എനിക്ക് ഒരു ദിശയിൽ മാത്രമേ പാച്ച് ഇടാൻ കഴിയൂ അതിനാൽ നിങ്ങൾ നൽകിയ അപ്ലിക്കേഷന് ഒരു ദിശയിൽ ഒരു പാച്ച് ഇടുന്നത് മതിയോ എന്ന് നമ്മൾ അന്വേഷിക്കേണ്ടതുണ്ട് കഴിയുമെങ്കിൽ നിങ്ങൾ ഇരുവശത്തും പാച്ച് ഇടുക അതിനായി നിങ്ങൾക്ക് പ്രവേശനക്ഷമത ഉണ്ടായിരിക്കണം വാസ്തവത്തിൽ വിമാന നിർമ്മാതാക്കൾ അതിന്റെ നിരവധി വശങ്ങളിൽ ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ട് പാച്ച് അടിസ്ഥാന മെറ്റീരിയലിന് സമാനമായ മെറ്റീരിയലായിരിക്കണമോ അതോ അത് ഒരു സംയോജിതമായിരിക്ക ണമോ എന്ന് കാരണം നിങ്ങൾക്ക് ഒരു അലുമിനിയം ഫ്രെയിം ഉള്ളപ്പോൾ ഗ്ലാസ് ഫൈബർ അല്ലെങ്കിൽ കെവ്ലർ ഫൈബർ അല്ലെങ്കിൽ കാർബൺ ഫൈബർ type പാച്ച് എന്നിവ ഉപയോഗിച്ച് നിർമ്മിച്ച പാച്ച് ഇടാൻ അവർ ശ്രമിക്കും അതിന്റെ ഫലപ്രദമായ ഫലപ്രാപ്തി എങ്ങനെയെന്ന് കാണുക നീളം എന്തായിരിക്കണം വീതി എന്തായിരിക്കണം ഇവയെല്ലാം പാരാമീറ്ററുകളാണ് Photoelastic demonstration of usefulness of a patch അതിനാൽ നമ്മൾ കാണുന്നത് നമ്മൾ ഫ്രിഞ്ച് പാറ്റേൺ മാത്രമേ നോക്കൂ അത് നിങ്ങൾക്ക് ധാരാളം വിവരങ്ങൾ നൽകുന്നു അതിനാൽ ഞാൻ ഇവിടെ എവിടെയെങ്കിലും ഒരു ഫ്രിഞ്ച് പാറ്റേൺ എടുക്കും ഞാൻ സമാനമായ ലോഡ് ഇടും സമാനമായ ഒരു ലോഡ് ഞാൻ ഇവിടെ ഇടും അതിനാൽ ഫ്രിഞ്ച്കളുടെ വലുപ്പത്തിൽ നിന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും ഇതാണ് അൺപാച്ച് ചെയ്യാത്ത മാതൃക എന്ന് ഇത് നിങ്ങൾക്ക് സ്കെച്ച് ചെയ്യാൻ കഴിയും നിങ്ങൾ സ്കെച്ച് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇത് ഒരു ദിശയിലുള്ള പാച്ച് ചെയ്ത മാതൃകയാണ് രണ്ട് ദിശകളിലെയും പാച്ച് ചെയ്ത മാതൃകയാണിത് Fringes ഗണ്യമായി താഴേക്ക് വരുന്നത് നിങ്ങൾക്ക് കാണാം നിങ്ങൾക്ക് രണ്ട് പാച്ചുകൾ ഉള്ളപ്പോൾ സമ്മർദ്ദ തീവ്രത കുറവാണെന്ന് ഇത് സൂചിപ്പിക്കുന്നു ഇത് നിങ്ങളുടെ സാമാന്യബുദ്ധിയുമായി ചേർന്ന് പോകുന്നു ഇത് പൂർണ്ണമായും പാച്ച് ആണെന്ന് നിങ്ങൾ പറയുമ്പോൾ അത് നന്നായി സംരക്ഷിക്കേണ്ടതുണ്ട് അതിനാൽ അതാണ് നിങ്ങൾ ഇവിടെ കാണുന്നത് ഇത് നിങ്ങൾക്ക് നാടകീയമായി നൽകുന്നു ഇത് വളരെ ശ്രദ്ധാപൂർവ്വം ചെയ്ത പരീക്ഷണമാണ് ഇത് വളരെ ശ്രദ്ധാപൂർവ്വം പരീക്ഷിച്ച എന്റെ വിദ്യാർത്ഥി മധു ആണ് ചെയ്തത് നിങ്ങൾക്ക് ഇവിടെ ഒരു പാച്ച് ഉണ്ട് നിങ്ങൾക്ക് മറ്റൊരു പാച്ച് ഉണ്ട് എനിക്ക് ലോഡ് വർദ്ധിപ്പിക്കാനും അത് എങ്ങനെയെന്ന് കാണിക്കാനും കഴിയും അതിനാൽ നമ്മൾ 0 79 MPa വരെ പോയി ഇതും നിങ്ങൾക്ക് കാണാം അതിനാൽ 0 79 MPa ന് ഫ്രിഞ്ച് പാറ്റേൺ പ്രത്യേക വലുപ്പമുള്ളതാണ് അതേസമയം നിങ്ങൾക്ക് ഇരട്ട പാച്ച് ഉള്ളപ്പോൾ ഇത് വളരെ ചെറുതാണ് ഫോട്ടോലാസ്റ്റിക് വിശകലനത്തിലൂടെയാണ് ഇവ കണക്കാക്കിയതെന്ന് നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് ഒരു കേസ് കാണാനാകും നിങ്ങൾ ഫീൽഡിൽ നിന്ന് ഡാറ്റ ശേഖരിക്കുന്നു ഇത് പുനർനിർമ്മിച്ച ഫ്രിഞ്ച് പാറ്റേൺ ആണ് K I ന്റെ മൂല്യം 0 67 MPa റൂട്ട് മീറ്ററാണ് K II വിള്ളലിന്റെ ചെറിയ വ്യതിയാനവും ലോഡിംഗും കാരണം നിങ്ങൾക്ക് K II ന്റെ വളരെ ചെറിയ മൂല്യമുണ്ട് ഇത് 0 03 MPa റൂട്ട് മീറ്ററാണ് അതിനാൽ ഫീൽഡിൽ നിന്ന് K I K II എന്നിവയുടെ മൂല്യം വേർതിരിച്ചെടുക്കുന്ന ഫോട്ടോലാസ്റ്റിക് ഫ്രിഞ്ച് പാറ്റേൺ പ്രോസസ്സ് ചെയ്യുന്നതിലൂടെ ഇത് സാധ്യമാണ് ഞാൻ കാണിക്കാൻ ആഗ്രഹിക്കുന്നത് ഗ്രാഫിന്റെ രൂപത്തിലുള്ള താരതമ്യമാണ് ഇത് കൂടുതൽ പ്രധാനമാണ് നിങ്ങൾ ഇതിന്റെ ഒരു രേഖാചിത്രം തയ്യാറാക്കുന്നു നിങ്ങൾക്ക് ഒരു അക്ഷത്തിൽ പട്ടികപ്പെടുത്തിയിരിക്കുന്ന കോൺഫിഗറേഷനുകൾ ഉണ്ട് സമ്മർദ്ദ തീവ്രത ഘടകം y അക്ഷത്തിൽ പട്ടികപ്പെടുത്തിയിരിക്കുന്നു അതിനാൽ നിങ്ങൾക്ക് അൺപാച്ച് ചെയ്യാത്ത വിള്ളൽ ഉണ്ടാകുമ്പോൾ ഇത് ഏകദേശം 0 79 MPa റൂട്ട് മീറ്റർ ആണ് ഒരു വശത്തെ പാച്ച് ഇത് ഏകദേശം 0 36 അല്ലെങ്കിൽ അതിൽ താഴെയായി ഇത് ഇരുവശത്തും പാച്ച് ചെയ്യുമ്പോൾ അത് 0 15 അല്ലെങ്കിൽ അതിൽ കൂടുതലാണ് അതിനാൽ പാച്ചിംഗ് വഴി ക്രാക്ക് അറസ്റ്റ് ഫലപ്രദമാണെന്ന് ഇത് കാണിക്കുന്നു പാച്ചിംഗ് സമ്മർദ്ദ തീവ്രത ഘടകത്തിന്റെ മൂല്യം കുറയ്ക്കുന്നു അതിനാൽ ഇത് ഉപയോഗപ്രദമായ ഒരു രീതിയാണ് ആളുകൾ ചെയ്യുന്ന മറ്റൊരു സമീപനം ആളുകൾ ദ്വാരം arrester ആയി ഉപയോഗിക്കുന്നു Hole as a Crack Arrester അതിനാൽ നിങ്ങൾ ഇവിടെ കാണുന്നത് ഒരു ദ്വാരമുള്ള ഒരു പ്ലേറ്റ് എന്റെ പക്കലുണ്ട് അതിൽ നിന്ന് വിള്ളലുകൾ പുറപ്പെടുന്നു ഒരു വശത്ത് നിങ്ങൾക്ക് ഒരു വിള്ളൽ ഉണ്ട് മറുവശത്ത് വിള്ളൽ ഒരു ദ്വാരത്താൽ നിർത്തുന്നു ഒരു ചെറിയ ദ്വാരം ഇട്ടു നിങ്ങൾ എന്തിനാണ് ഒരു ദ്വാരത്തിനായി പോകുന്നത് നിങ്ങൾ ഒരു ദ്വാരം ഇടുകയാണെങ്കിൽ സമ്മർദ്ദ തീവ്രത ഏകദേശം 3 ആയി കുറയുന്നു ഇത് ഒരു finite body ആയതിനാൽ ഇത് 3 നേക്കാൾ വലുതായിരിക്കും ഇത് സൈദ്ധാന്തികമായി അനന്തമല്ല കാരണം ക്രാക്ക് ടിപ്പിൽ നിങ്ങൾക്ക് സമ്മർദ്ദങ്ങളുടെ അനന്തമായ മൂല്യമുണ്ട് നിങ്ങൾ ഒരു ദ്വാരം ഇടുന്ന നിമിഷം നിങ്ങൾക്ക് riveted joints ഉള്ളപ്പോൾ riveted hole ഒരു ദ്വാരം പോലെ സേവിക്കുന്നുനിങ്ങൾക്കറിയാവുന്ന കാരണം ഇതാണ് അതിനാൽ ഇത് ഒരു ക്രാക്ക് അറസ്റ്ററെപ്പോലെ പ്രവർത്തിക്കുന്നു വീണ്ടും re initiation സമയം വൈകി സമ്മർദ്ദ തീവ്രത ഘടകത്തിൽ ഇതിന് വലിയ മാറ്റമുണ്ടായിരിക്കില്ല എന്നാൽ ഇത് കൂടുതൽ വളരുന്നതിനുള്ള വിള്ളൽ വീണ്ടും ആരംഭിക്കുകയും പിന്നീട് പോകുകയും വേണം അതിനാൽ നിങ്ങൾ വീണ്ടും re initiation സമയം വൈകിപ്പിക്കുന്നു ഒരു ക്രാക്ക് അറസ്റ്ററെന്ന നിലയിൽ ദ്വാരത്തിന്റെ ഗുണം അതാണ് ഫോട്ടോഇലാസ്റ്റിക് വിശകലനത്തിലൂടെ ഇത് വീണ്ടും ചെയ്യുന്നു ഇരുണ്ട ഫീൽഡിലും ശോഭയുള്ള ഫീൽഡിലും നിങ്ങൾക്ക് ഫ്രിഞ്ച് പാറ്റേണുകൾ ഉണ്ട് ഫ്രിഞ്ച് പാറ്റേണുകൾ തമ്മിൽ വലിയ വ്യത്യാസം നിങ്ങൾ കാണില്ല കാരണം SIF മൂല്യം കാര്യമായി മാറ്റിയിട്ടില്ല നിങ്ങൾ ഇത് എടുത്തു ക്ലോസ് അപ്പ് കാഴ്ചകൾ കാണിച്ചിരിക്കുന്നു പ്രോസസ്സ് ചെയ്ത ഡാറ്റയിൽ നിന്ന് പുനർനിർമ്മിച്ച ഫ്രിഞ്ച് പാറ്റേൺ ഇവയാണ് ഒന്ന് യഥാർത്ഥ വിള്ളലിന് മറ്റൊന്ന് ഒരു ദ്വാരത്താൽ മൂർച്ചയുള്ളതാണ് SIF മൂല്യത്തിൽ വലിയ വ്യത്യാസം നിങ്ങൾ കണ്ടെത്തുന്നില്ല എന്നാൽ ഒരു ദ്വാരത്തിന്റെ പ്രയോജനം എന്താണ് എന്ന് വെച്ചാൽ ഇത് re initiation period വൈകിപ്പിക്കുന്നു നിങ്ങൾക്ക് 0 330 MPa റൂട്ട് മീറ്ററായി K I ഉണ്ട് ഇത് ഒരു ദ്വാരത്താൽ മൂർച്ചയുള്ളപ്പോൾ അത് 0 265 MPa റൂട്ട് മീറ്ററാണ് നോക്കൂ ഇതെല്ലാം എപോക്സിയിലാണ് ചെയ്യുന്നത് അതിനാലാണ് സമ്മർദ്ദ തീവ്രത ഘടകത്തിന്റെ അത്തരം ചെറിയ മൂല്യങ്ങൾ നിങ്ങൾ കാണുന്നത് ഇത് അലുമിനിയത്തിലോ സ്റ്റീലിലോ ചെയ്തിട്ടില്ല അവിടെ മൂല്യങ്ങൾ തികച്ചും വ്യത്യസ്തമായിരിക്കും അതിനാൽ ദ്വാരത്തിന്റെ പ്രഭാവം re initiation സമയം വൈകിപ്പിക്കുക എന്നതാണ് യഥാർത്ഥത്തിൽ വിള്ളൽ വളർച്ചാ നിരക്ക് ഇതുപോലെയാണ് നിങ്ങൾക്ക് ഒരു ദ്വാരം ഉള്ളപ്പോൾ അത് വൈകും തുടർന്ന് വിള്ളൽ വളർച്ച ഇങ്ങനെയായിരിക്കും അതിനാൽ ഇത് നിങ്ങൾക്ക് ലഭിച്ച നേട്ടമാണ് ഇത് വീണ്ടും re initiation സമയം വൈകിപ്പിക്കുന്നു Riveted joints ഉള്ളപ്പോൾ ഇത് സ്വാഭാവികമായും സംഭവിക്കുന്നു ഒരു ദ്വാരത്തിലൂടെ ആരംഭിച്ച വിള്ളൽ എന്തുതന്നെയായാലും അത് മറ്റൊരു ദ്വാരത്തിൽ വന്ന് നിൽക്കും അത് കൂടുതൽ മുന്നോട്ട് പോകാൻ കുറച്ച് സമയമെടുക്കും അതിനാൽ ഇതാണ് വ്യത്യാസം നിങ്ങൾക്ക് ഒരു welded ജോയിന്റ് ഉള്ളപ്പോൾ വിള്ളൽ പ്രചരിക്കാൻ തുടങ്ങിയാൽ അറസ്റ്റുചെയ്യാൻ ഒന്നുമില്ല അതിനാൽ ക്രാക്ക് ലളിതമായി കടന്നുപോകും അതിനാൽ പിന്നീടുള്ള കപ്പൽ രൂപകൽപ്പനയിൽ ആളുകൾ ഉചിതമായ സ്ഥലങ്ങളിൽ ക്രാക്ക് അറസ്റ്ററുകൾ നൽകിയിട്ടുണ്ട് പിന്നെ welded ചെയ്ത കപ്പലുകളും വളരെ സുരക്ഷിതമാകും അതിനാൽ ഇത് നിങ്ങൾ ഓർമ്മിക്കേണ്ടതാണ് Re initiation സമയം വിള്ളലിന്റെ അവസാനം ഒരു ദ്വാരം സ്ഥാപിക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന നേട്ടം എന്താണ് അടുത്ത ആശയം self healing ആണ് ഇതെല്ലാം ജൈവവ്യവസ്ഥയാണ് Self Healing - a Methodology for Crack Arrest നോക്കൂ എന്താണ് സംഭവിക്കുന്നത് നിങ്ങൾക്ക് ഒരു വീഴ്ച വരുമ്പോൾ ഒരു മുറിവ് സംഭവിക്കും ഇവിടെയാണ് എന്തെങ്കിലും സംഭവിച്ചതെന്ന് നിങ്ങളുടെ സിസ്റ്റം മനസ്സിലാക്കുന്നു അതിനാൽ ചർമ്മം ആ സ്ഥലത്ത് മാത്രമേ പരിഷ്കരിക്കൂ ഇത് എങ്ങനെ സംഭവിക്കും യഥാർത്ഥ ഘടനയിൽ ഇത് അനുകരിക്കാൻ കഴിയുമോ പ്രത്യേകിച്ചും സംയോജിതമായി നിർമ്മിച്ച ഒരു ബഹിരാകാശ പര്യവേക്ഷണ ഉപകരണം നിങ്ങളുടെ കൈവശമുള്ളപ്പോൾ നിങ്ങൾക്ക് ബഹിരാകാശത്ത് പോയി നന്നാക്കാൻ കഴിയില്ല ഇത് സ്വയം നന്നാക്കണം അതിനാൽ അത്തരം സാഹചര്യത്തിൽ ഈ ആശയങ്ങൾ പരീക്ഷിക്കപ്പെടുന്നു ഘടനാപരമായ പോളിമറുകൾ വിള്ളലുകളുടെ രൂപത്തിൽ കേടുപാടുകൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് അവ ഘടനയ്ക്കുള്ളിൽ ആഴത്തിൽ രൂപം കൊള്ളുന്നു അത് കണ്ടെത്തുന്നത് ബുദ്ധിമുട്ടാണ് നന്നാക്കൽ മിക്കവാറും അസാധ്യമാണ് പ്രകൃതിയിൽ ഒരു ജീവിയുടെ കേടുപാടുകൾ ഒരു രോഗശാന്തി പ്രതികരണത്തിന് തുടക്കമിടുന്നു അതിനാൽ അതിന് വളരെ സാമ്യമുണ്ട് കേടുപാടുകൾ സംഭവിക്കുമ്പോൾ അത് ഒരു രോഗശാന്തി പ്രതികരണത്തിന് തുടക്കം കുറിക്കണം ആളുകൾ നോക്കിക്കാണുന്നത് അങ്ങനെയാണ് അതാണ് ജീവജാലങ്ങളിൽ നിന്ന് അവർ പഠിച്ച കാര്യങ്ങൾ അതിനാൽ ഈ ആശയം സിന്തറ്റിക് മെറ്റീരിയൽ രൂപകൽപ്പനയിൽ പ്രയോഗിക്കുകയും സ്വയം രോഗശാന്തി പോളിമർ വികസിപ്പിക്കുകയും ചെയ്തു എനിക്ക് അത് വലുതാക്കി കാണിക്കാൻ കഴിഞ്ഞു സംയോജനം ഇത് പോലെ കാണപ്പെടുന്നു ഇല്ലിനോയിസ് സർവകലാശാലയിലാണ് ഇത് ചെയ്തത് പ്രൊഫസർ സൊട്ടോസിന് ഇതിന്റെ സംഭാവനയ്ക്കുള്ള ബഹുമതി ഉണ്ട് നിങ്ങൾക്ക് ഒരു വിള്ളൽ ഉണ്ട് ഒപ്പം വിള്ളലും സുഖപ്പെടും ഇതിനായി അവർ ഒരു പ്രത്യേക രീതിയിൽ പോളിമർ കെട്ടിച്ചമയ്ക്കണം അവ മൈക്രോ ബബിളുകൾ ഉൾപ്പെടുത്തണം മൈക്രോ ബബിൾസ് റെസിൻ ഹാർഡനർ എന്നിവയും വഹിക്കും അതിനാൽ വിള്ളൽ പോയി കാറ്റലിസ്റ്റിനെയും റെസിനെയും തുളച്ചുകയറുമ്പോൾ അവ പുറത്തുപോകുന്നു healing നടക്കുന്നു അതിനാൽ ഈ ബബിൾ തൃപ്തികരമായി വിതരണം ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ എന്ന് നിങ്ങൾ കണക്കാക്കേണ്ടതുണ്ട് ഇവയെല്ലാം നിർമ്മാണ പ്രശ്നങ്ങളാണ് ഇതിന്റെ ആശയം ഇതുപോലെയാണ് അതിനാൽ നമ്മൾ ആശയം വേഗത്തിൽ കാണാം അതിനാൽ ഇതിനെ ഓട്ടോണമിക് ഹീലിംഗ് കൺസെപ്റ്റ് എന്ന് വിളിക്കുന്നു ഇവിടെ സംഭവിക്കുന്നത് നിങ്ങൾക്ക് പോളിമർ സിസ്റ്റം ഉണ്ട് നിങ്ങൾക്ക് വിവിധ വലുപ്പത്തിലുള്ള കുമിളകളുണ്ട് മൈക്രോകാപ്സ്യൂളുകൾ റെസിനും അതുപോലെ ഉത്തേജകവും വഹിക്കുന്നു അതിനാൽ സംഭവിക്കുന്നത് വിള്ളൽ വളർച്ചയുള്ളിടത്തെല്ലാം വിള്ളൽ വളർച്ച ഒരു ഉത്തേജകത്തെയും റെസിൻ സിസ്റ്റത്തെയും സ്ഥിരമായി വളർത്തുന്നു അതിനാൽ അവർ പുറത്തുവന്ന് അത് മുദ്രയിട്ടു അതാണ് ഇതിന്റെ പിന്നിലെ ആശയം ഇത് പേറ്റന്റ് നേടിയതിനാൽ ആളുകൾ ഇത് കൂടുതൽ വികസിപ്പിക്കുന്നു കാരണം ഇത് വാണിജ്യപരമാക്കാൻ അത് പ്രവർത്തിക്കണം ആശയം അഭിനന്ദിക്കാൻ ലളിതമാണ് അതിനാൽ വിള്ളൽ വളരുമ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് റെസിൻ റിലീസ് ചെയ്യാം കാറ്റലിസ്റ്റ് ഇതുമായി സംവദിക്കുന്നു നിങ്ങൾക്ക് പോളിമറൈസേഷൻ നടക്കുന്നു തുടർന്ന് രോഗശാന്തി നടക്കുന്നു അതിനാൽ കേടുപാടുകൾ രോഗശാന്തി പ്രവർത്തനത്തിനും കാരണമാകുന്നു നിരവധി സാങ്കേതിക ചോദ്യങ്ങളുണ്ട് നിങ്ങൾ ശരിക്കും നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു വിടവ് ഉണ്ടെങ്കിൽ ഈ വിടവ് എങ്ങനെ പ്രവർത്തിക്കും അതിനാൽ ഇതെല്ലാം ആളുകൾ ശ്രദ്ധിക്കേണ്ട പ്രശ്നങ്ങളാണ് ഈ മൈക്രോ ബബിളുകൾ statistically വിതരണം ചെയ്യേണ്ട മാർഗം എന്താണ് അതിനാൽ ഫാബ്രിക്കേഷനിൽ അവർക്ക് ഇത് എങ്ങനെ ഉറപ്പാക്കാനാകും fabrication സമയത്ത് നിങ്ങൾ അഭിസംബോധന ചെയ്യേണ്ട വളരെ ബുദ്ധിമുട്ടുള്ള പ്രശ്നങ്ങളാണിവ എന്നാൽ ഒരു ജൈവവ്യവസ്ഥ എങ്ങനെ പ്രതികരിക്കും എന്നതിന് സമാനമാണ് ഈ ആശയം കേടുപാടുകൾ സംഭവിച്ച സ്ഥലത്താണ് രോഗശാന്തി നടക്കുന്നത് അതിനാൽ ആഴത്തിലുള്ള ബഹിരാകാശ പര്യവേക്ഷണം ഉപഗ്രഹങ്ങൾ റോക്കറ്റ് മോട്ടോറുകൾ പ്രോസ്തെറ്റിക് അവയവങ്ങൾ ഇന്നത്തെയും ഭാവിയിലെയും ബഹിരാകാശ നിലയങ്ങൾ സംയോജിത വസ്തുക്കളാൽ നിർമ്മിച്ച പാലങ്ങൾ എന്നിവയിൽ ഇത് പ്രയോഗം കണ്ടെത്തുന്നു നിങ്ങൾക്ക് പട്ടികപ്പെടുത്താം എന്നാൽ ആശയം ഇതാണ് നിങ്ങൾക്ക് പോയി പരിശോധിച്ച് തിരുത്തൽ നടത്താൻ കഴിയാത്ത സ്ഥലങ്ങളിൽ രോഗശാന്തി നടക്കുകയും കാലതാമസം വരുത്തുകയും ചെയ്യാം അത് തന്നെ ധാരാളം Crack Repair by Metal Stitching മെറ്റൽ സ്റ്റിച്ചിംഗ് വഴി ക്രാക്ക് റിപ്പയർ എന്ന അടുത്ത ആശയത്തിലേക്ക് നമ്മൾ നീങ്ങുന്നു നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് വളരെ വിദഗ്ദ്ധവും വിശ്വസനീയവും cold work മെക്കാനിക്കൽ പ്രക്രിയയാണ് ഇത് cast iron കാസ്റ്റ് സ്റ്റീൽ അലുമിനിയം ഹൌസിംഗ് എന്നിവയുടെ തകർന്നതോ തകർക്കപ്പെട്ടതോ ആയ അറ്റകുറ്റപ്പണികൾ നടത്തുന്നു ഇത് ഉപയോഗപ്രദമായ ഒരു വശമാണെന്ന് നിങ്ങൾക്കറിയാം ഇത് അതിന് കീഴിലല്ലെങ്കിലും ഫ്രാക്ചർ മെക്കാനിക്സിന്റെ പ്രിവ്യൂ പെർ സെ കാരണം നിങ്ങൾ ശരിക്കും housing ലേക്ക് നോക്കുന്നു എന്നാൽ പ്രായോഗിക ആപ്ലിക്കേഷൻ കാഴ്ചപ്പാടിൽ ഇത് വളരെ ഉപയോഗപ്രദമാണ് കാരണം മെറ്റൽ സ്റ്റിച്ചിംഗ് സാധ്യമാണെന്ന് പലർക്കും അറിയില്ല നമുക്കെല്ലാവർക്കും വെൽഡിംഗ് മാത്രമേ അറിയൂ ബ്രേസിംഗും മറ്റും നമുക്കറിയാം ഒരു തണുത്ത പ്രവർത്തനമായ മെറ്റൽ സ്റ്റിച്ചിംഗും സാധ്യമാണ് ഈ പ്രക്രിയയിൽ ഉൾപ്പെടുന്നത് മുൻകൂട്ടി തയ്യാറാക്കിയ സ്ലോട്ടുകളിൽ വിള്ളലുകൾക്കിടയിൽ പ്രത്യേകം രൂപകൽപ്പന ചെയ്ത ലോക്കുകൾ ഉൾപ്പെടുത്തുക എന്നതാണ് ഈ അലോയ് ലോക്കുകൾക്ക് കാസ്റ്റ് ഇരുമ്പിന്റെ 3 മുതൽ 5 ഇരട്ടി വരെയാണ് ടെൻസൈൽ സമ്മർദ്ദത്തെ പ്രതിധിരോധിക്കാൻ കഴിയുന്നത് അതിനാൽ നിങ്ങൾ മറ്റൊരു മെറ്റീരിയൽ ഉപയോഗിക്കുന്നു ഉയർന്ന കരുത്ത് ഉള്ള മെറ്റീരിയൽ പ്രത്യേകം രൂപകൽപ്പന ചെയ്ത threaded പിൻസ് ഉപയോഗിച്ച് വിള്ളൽ മുഖങ്ങൾ അടുത്ത് കൊണ്ടുവരുന്നു അതിനാൽ നിങ്ങൾക്ക് ലോക്കുകളും ത്രെഡുചെയ്ത പിൻസുകളും ഉണ്ട് ഇവിടെ വീണ്ടും നിങ്ങൾക്ക് ഒരു വിള്ളൽ ഉണ്ടെന്ന് നിങ്ങൾ കണ്ടെത്തും ഒപ്പം വിള്ളലിന് ലംബമായി ലോക്കുകൾ ചെയ്യുന്നു അതിനാൽ ഫ്രാക്ചർ മെക്കാനിക്സിൽ നിന്ന് നിങ്ങൾ പഠിക്കുന്നു നിങ്ങളുടെ കാർ കവറിൽ ഒരു വിള്ളൽ കണ്ടെത്തിയാൽ നിങ്ങളുടെ ടേപ്പ് വിള്ളലിന് ലംബമായി ഇടുക ഇത് സമാന്തരമായി ഇടുന്നതിനേക്കാൾ കൂടുതൽ കാലം നിലനിൽക്കും അതിനാൽ മെറ്റൽ സ്റ്റിച്ചിന്റെ കോൺഫിഗറേഷൻ ഇതാണ് കാണിക്കുന്നത് എനിക്ക് വിള്ളൽ ഉണ്ട് ഞാൻ അതിനെ ലംബമായി ഇട്ടു ഈ ലോക്കുകൾക്ക് പ്രത്യേക ആകൃതിയുണ്ട് വളരെ പ്രത്യേക രൂപം നമുക്ക് അത് നോക്കാം ഇതാണ് ടോപ്പ് വ്യൂ നിങ്ങൾക്ക് ഒരു വിള്ളൽ ഉണ്ട് നിങ്ങൾക്ക് ഈ പ്രത്യേക ലോക്ക് ഉണ്ട് ഇത് ലളിതമായ straight ഭാഗമല്ല ഇതിന്റെ മെഷീനിംഗ് തന്നെ വിദഗ്ദ്ധമാണ് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള മെഷീനിംഗ് ആവശ്യമാണ് ഒരു സാധാരണ ലോക്ക് ഇതുപോലെയാകും അതിന്റെ ആകാരം ഇവിടെ നൽകിയിരിക്കുന്നു നിങ്ങൾക്ക് രൂപകൽപ്പന ചെയ്ത ഒരു ലോക്ക് ഉണ്ട് ഇതുപോലുള്ള ഘടകത്തിൽ ഉചിതമായ ഉപകരണങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾ ഒരു slit ഉണ്ടാക്കണം അതിനാലാണ് ഇതിൽ ഉൾപ്പെടുന്ന പ്രത്യേക കമ്പനികൾ നിങ്ങൾക്ക് ഉള്ളത് നിങ്ങൾ ഇതിന്റെ ഒരു രേഖാചിത്രം തയ്യാറാക്കുന്നു ഈ ലോക്കിന്റെ രേഖാചിത്രം അതിനാൽ ഈ മെഷീനിംഗ് തന്നെ വെല്ലുവിളിയാകും അവർ ചെയ്യുന്നത് അവർ ഇതിന്റെ പാളികൾ ഇടുന്നു അവർ അത് drill ചെയ്യണം ഒന്നിനു പുറകെ ഒന്നായി drill ഇടുക അവ നന്നാക്കി മിനുക്കി പെയിന്റ് ചെയ്തുകഴിഞ്ഞാൽ അത് ഒരു നല്ല ഘടകമാണെന്ന് നിങ്ങൾ കണ്ടെത്തും തകർന്നതും പൊട്ടാത്തതുമായ ഒന്ന് തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയില്ല അതിനാൽ കാസ്റ്റിംഗിൽ കൃത്യമായ hole പാറ്റേൺ സൃഷ്ടിക്കാൻ നിങ്ങൾക്ക് പ്രത്യേക ഡ്രിൽ ജിഗുകൾ ഉണ്ട് പ്രവർത്തനത്തിന്റെ ക്രമം നമുക്ക് നോക്കാം നിങ്ങൾ അപ്പർച്ചർ നിർമ്മിക്കേണ്ടതുണ്ട് കാരണം നിങ്ങൾ അത് ഉചിതമായി തുരക്കണം തുടർന്ന് ഈ ലോക്കുകൾ ചേർക്കുക അപ്പോൾ നിങ്ങൾ സ്റ്റഡുകൾ fix ചെയ്യണം അവ സൂക്ഷിക്കാൻ പ്രത്യേക സ്റ്റഡുകൾ ആവശ്യമാണ് തുടർന്ന് നിങ്ങൾ rough grinding smooth grinding ഫിനിഷിംഗ് എന്നിവ ചെയ്യുന്നു അതിനാൽ നിങ്ങൾ അപ്പർച്ചർ നിർമ്മിക്കുന്നു ലോക്കിംഗ് സ്റ്റഡുകൾ fix ചെയ്യുന്നു വൃത്തിയാക്കുന്നു ഞാൻ ആനിമേഷൻ വീണ്ടും ചെയ്യും പ്രവർത്തനത്തിന്റെ ക്രമം നിങ്ങൾ നിരീക്ഷിക്കുക ലോക്കുകൾ ഇടുന്നതിന് നിങ്ങൾ പ്രത്യേക ദ്വാരങ്ങൾ നിർമ്മിക്കണം അവയെ പ്രത്യേക കീകൾ എന്ന് വിളിക്കുന്നു അതിനാൽ നിങ്ങൾ അത് പരിഹരിക്കേണ്ടതുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ലോക്കിംഗ് സ്റ്റഡുകൾ ഉണ്ട് പിന്നീട് അത് നന്നാക്കുക അതിന്റെ കടപ്പാട് യുകെയിലെ മെറ്റൽ ലോക്ക് കോഡിനു പോകുന്നു ഗിയർ ബോക്സിന്റെ ഹൌസിംഗ് ഇവിടെ കാണിച്ചിരിക്കുന്നു അത് പൊട്ടിയതാണ് ഇത് തുന്നിക്കെട്ടി ഇത് പെയിന്റ് ചെയ്തിട്ടില്ല ഇത് പെയിന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു വ്യത്യാസവും കണ്ടെത്താൻ കഴിയില്ല നിങ്ങൾ ഓർമ്മിക്കേണ്ടത് ഇതാണ് ഇത് ഉയർന്ന സമ്മർദ്ദത്തിൽ പ്രവർത്തിക്കുന്ന ഉപകരണങ്ങളിൽ ഉയർന്ന കാഠിന്യത്തോടെ 100 ശതമാനം ലീക്ക് ഫ്രീ റിപ്പയർ ഉറപ്പാക്കുന്നു തുന്നിച്ചേർക്കേണ്ട വസ്തുവിന്റെ ഏറ്റവും കുറഞ്ഞ കനം 9 മില്ലീമീറ്ററാണ് thickness ന് ഉയർന്ന പരിധിയൊന്നുമില്ല അറ്റകുറ്റപ്പണികൾ തണുത്ത പ്രക്രിയയിൽ നടക്കുന്നതിനാൽ വികലമോ താപ സമ്മർദ്ദമോ ഉണ്ടാകില്ല അതാണ് അതിന്റെ നേട്ടം നിങ്ങൾ വെൽഡിങ്ങിനായി പോയാൽ നിങ്ങൾക്ക് distortion ഉണ്ട് അതിനാൽ അത്തരം വൈകല്യങ്ങൾ ഇവിടെ കാണുന്നില്ല ഈ കോഴ്സിലെ അവസാന ക്ലാസാണ് ഇതെന്ന് നിങ്ങൾക്കറിയാം നമ്മൾ വളരെ ദൂരം എത്തിയിരിക്കുന്നു ലീനിയർ ഇലാസ്റ്റിക് ഫ്രാക്ചർ മെക്കാനിക്സിന്റെ വികസനം നമ്മൾ വിശദമായി കണ്ടു ഗണിതശാസ്ത്രപരമായ അടിസ്ഥാനം പോലും വളരെ സമഗ്രമായി പഠിച്ചു അവസാന ഘട്ടത്തിൽ നമ്മൾ ചെയ്ത derivations പോലും തുടർന്ന് നമ്മൾ എലാസ്റ്റോ പ്ലാസ്റ്റിക് ഫ്രാക്ചർ മെക്കാനിക്സുമായി ബന്ധപ്പെട്ട ആശയങ്ങളിലേക്ക് നീങ്ങി J ഇന്റഗ്രൽ CTOD എന്നിവ നമ്മൾ ഹ്രസ്വമായി നോക്കി പരാജയ വിലയിരുത്തൽ രേഖാചിത്രവും നമ്മൾ പരിശോധിച്ചു മിക്സഡ് മോഡ് ഫ്രാക്ചറിൽ ഏത് വിധത്തിൽ വിള്ളൽ വളരും എന്നതിന്റെ പ്രധാന വശം നമ്മൾ ഏറ്റെടുത്തു ഫിസിക്കൽ കൺസെപ്റ്റ് ബേസ്ഡ് ഫ്രാക്ചർ സിദ്ധാന്തങ്ങളിൽ മോഡ് I ഫ്രാക്ചർ toughness എങ്ങനെ ഉപയോഗിക്കാമെന്ന് നമ്മൾ കണ്ടു പിന്നീട് ആളുകൾ K IC യും K IIC യും ഉപയോഗിച്ച അനുഭവപരമായ സമീപനങ്ങളിലേക്ക് മാറി ഈ ക്ലാസ്സിൽ പ്രധാനമായും നമ്മൾ ക്രാക്ക് അറസ്റ്റും റിപ്പയർ രീതികളും പരിശോധിച്ചു പാച്ചുകൾ ഇടുന്നതിലൂടെ ക്രാക്ക് അറസ്റ്റ് സാധ്യമാണ് എയ്റോസ്പേസ് ഘടനയിൽ ഇത് വിശാലമായ പ്രയോഗം കണ്ടെത്തി പാച്ച് ഒരു വശത്ത് വയ്ക്കുന്നതിലൂടെയും ഇരുവശത്തും പാച്ച് ഇടുന്നതിലൂടെയും എന്താണ് ഫലം പിന്നെ വിള്ളൽ വീണ്ടും ആരംഭിക്കാൻ കാലതാമസം വരുത്താൻ ഒരു ദ്വാരം എങ്ങനെ സഹായിക്കും പിന്നെ മെറ്റാലിക് സ്റ്റിച്ചിംഗും നമ്മൾ കണ്ടു അതിനാൽ ഫ്രാക്ചർ മെക്കാനിക്സ് വികസിപ്പിക്കാൻ പ്രേരിപ്പിച്ചതെന്താണ് ഗണിതശാസ്ത്രം അതിന്റെ നിരവധി വശങ്ങളെക്കുറിച്ചുള്ള വിശദമായ derivations എന്നിവയെക്കുറിച്ച് നമ്മൾ നിരവധി വശങ്ങൾ പരിശോധിച്ചു അതിന്റെ ആപ്ലിക്കേഷൻ വശങ്ങൾ നോക്കുന്ന പരിധി വരെ നമ്മൾ പോയിട്ടുണ്ട് ഈ മേഖലയാണ് വികസിച്ചുകൊണ്ടിരിക്കുന്നത് ഗവേഷണത്തിന് സാധ്യതയുണ്ട് നിങ്ങൾ സമീപകാല ലേഖനങ്ങളും പുസ്തകങ്ങളും പരിശോധിക്കണം നിങ്ങൾക്ക് വായിക്കാൻ ഇനിയും ധാരാളം കാര്യങ്ങളുണ്ട് നിലവിലെ സാഹിത്യം വായിക്കാൻ ആവശ്യമായ അടിസ്ഥാന ധാരണ നമ്മൾ ചർച്ച ചെയ്തതെല്ലാം നിങ്ങൾക്ക് നൽകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്